ഇപ്പോൾ മറ്റൊരു തരം നിയന്ത്രിത സോഴ്സ് നമ്മൾ ഏറ്റെടുക്കും അത് കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിലെന്നപോലെ കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ ഗെയിൻ ഒന്നായി നമ്മൾ മാറ്റും അതായത് പൊതുവെ കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സിന് ഔട്ട്പുട്ട് കറന്റ് ഉണ്ടായിരിക്കണം ഇത് കോൺസ്റ്റന്റ് k തവണ ഇൻപുട്ട് കറന്റാണ് കൂടാതെ കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് നയിക്കുന്ന സോഴ്സിന്റെ ഇമ്പിടൻസിൽ നിന്നും ലോഡ് റെസിസ്റ്റൻസിൽ നിന്നും ഇത് സ്വതന്ത്രമായിരിക്കണം അത് സംഭവിക്കാൻ ഇത് പൂജ്യത്തിലേക്ക് വളരുന്ന വളരെ ചെറിയ ഇൻപുട്ട് റെസിസ്റ്റൻസും ഉയർന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസും വാഗ്ദാനം ചെയ്യണം ഇപ്പോൾ MOS ട്രാൻസിസ്റ്റർ എന്ന രീതി കാരണം നിയന്ത്രണത്തിനും നിയന്ത്രണ വശത്തിനുമിടയിൽ ഒരു കോമൺ ടെർമിനൽ ഉണ്ട് അത് സോഴ്സ് ടെർമിനലാണ് ഇത് രണ്ട് വശങ്ങളിലും കോമൺ ആണ് k എന്നത് ഒന്നിന് തുല്യമാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അതിനാൽ ioii തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കും വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ കാര്യത്തിലെന്നപോലെ ഗെയിൻ ഒന്നുമില്ലെങ്കിലും ഇത് കറന്റ് ബഫറായി ഇപ്പോഴും ഉപയോഗപ്രദമാണ് അതായത് ചില സോഴ്സ് റെസിസ്റ്റൻസ് RS ന് സമാന്തരമായി നമുക്ക് അപൂർണ്ണമായ കറന്റ് സോഴ്സ് ii ഉണ്ടെന്ന് പറയട്ടെ നിങ്ങൾക്ക് ഒരു ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നേരിട്ട് കണക്റ്റുചെയ്യുകയാണെങ്കിൽ ലോഡ് കറന്റ് ഇൻപുട്ട് കറന്റിലെ ഒരു ഭാഗം മാത്രമായിരിക്കും ഈ ഭിന്നസംഖ്യ എത്രയാണ് എന്നത് RS മുതൽ RL വരെയുള്ള അനുപാതത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കറന്റ് ബഫർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കറന്റ് ബഫറാണ് ഇതിന് വളരെ കുറഞ്ഞ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും അതായത് ആ കറന്റ് എല്ലാം ഇൻപുട്ടിലേക്ക് പോകുകയും ഔട്ട്പുട്ട് കറന്റ് ഇൻപുട്ടിന് തുല്യമായിരിക്കും അതിനാൽ RS ന്റെയും RL ന്റെയും മൂല്യങ്ങൾ എന്തുതന്നെയായാലും ഔട്ട്പുട്ട് കറൻറ് അതായത് ലോഡിലെ കറൻറ് ഇൻപുട്ട് കറന്റിന് തുല്യമായിരിക്കും അതിനാൽ അതിന്റെ ഉപയോഗമാണിത് ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ഇത് മനസ്സിലാക്കും അതിനാൽ നമുക്ക് വേണ്ടത് ioii ഇൻപുട്ട് കറന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ വ്യക്തമായും നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു കറന്റ് സോഴ്സ് ii ഉണ്ടെന്നാണ് തീർച്ചയായും അത് അനുയോജ്യമല്ലാത്തതാകാം വാസ്തവത്തിൽ ഇത് അനുയോജ്യമല്ലാത്തതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് സമാന്തരമായി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും അത് RS ആണ് ഒരു വോൾട്ടേജ് ഇൻപുട്ടിനായുള്ള നമ്മളുടെ പ്രാതിനിധ്യം റെസിസ്റ്റൻസ് RS മായി സീരീസിലുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് vi ആണെന്ന് ഓർക്കുക RS ന് സമാന്തരമായി ഇത് ii കറന്റ് സോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് സമാനമായി ചിന്തിക്കാനാകും അതിനാൽ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് ഇപ്പോൾ പ്രാരംഭ ചർച്ചയിൽ ആ ഡ്രോയിംഗ് നിർമ്മിക്കാൻ ഞാൻ RS നെ ഒഴിവാക്കും എന്നിരുന്നാലും പിന്നീട് ഞാൻ അതിൽ ഉൾപ്പെടുത്തി അതിന്റെ ഫലം വിശകലനം ചെയ്യും ഇപ്പോൾ എനിക്ക് ioii വേണം എന്താണ് ഈ io നമ്മൾക്ക് MOS ട്രാൻസിസ്റ്റർ അതിന്റെ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് ടെർമിനലുകൾ എന്നിവയുണ്ട് ഇത് vgs ആണ് ഈ കറന്റ് gmvgs ആണ് വർദ്ധിച്ചുവരുന്ന ഡ്രെയിൻ കറന്റ് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു അത് ഔട്ട്പുട്ട് കറന്റ് io ആയിരിക്കും അതിനാൽ അവിടെയാണ് ഒരു MOS ട്രാൻസിസ്റ്ററിൽ ഒരു കറന്റ് ഒഴുകുന്നത് അത് നമ്മുടെ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കറന്റായിരിക്കണം അതിനാൽ ഈ വൈദ്യുതധാര ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് സാക്ഷാത്കരിക്കുന്നതിന് നമ്മൾ എന്തുചെയ്യുന്നു io ഔട്ട്പുട്ട് കറന്റിനെ ii മായി താരതമ്യം ചെയ്യണം io ii എങ്കിൽ നമ്മൾ vgs കുറയ്ക്കണം io ii എങ്കിൽ നമ്മൾ vgs വർദ്ധിപ്പിക്കണം ഇപ്പോൾ ഒടുവിൽ ഈ ബ്ലോക്കിന്റെ ഔട്ട്പുട്ട് കറന്റ് ഒരു ലോഡിലേക്ക് കണക്റ്റുചെയ്തിരിക്കണം അതിനാൽ കറന്റ് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു നമുക്ക് ഈ ടെർമിനലുകളിലൊന്നിലേക്ക് ലോഡ് ബന്ധിപ്പിക്കാം മറ്റ് ടെർമിനലിൽ ഈ താരതമ്യം ചെയ്യുക ഇപ്പോൾ നിങ്ങൾ വളരെ അടുത്ത് പിന്തുടരുകയാണെങ്കിൽ അത്പോലെ മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ ഇത് ഇതിനകം തന്നെ ചെയ്തുവെന്ന് നിങ്ങൾ കാണുന്നു നമ്മൾ പറയുന്നത് ഇവിടെയുള്ള MOS ട്രാൻസിസ്റ്റർ id യുടെ ഡ്രെയിൻ കറന്റ് ഈ id യുടെ പേരുമാറ്റാൻ എന്നെ അനുവദിക്കുക ഇത് id ക്ക് അല്ലെങ്കിൽ ioii ന് തുല്യമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ മുമ്പ് എവിടെയാണ് ഇത് ചെയ്തത് ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ ബയസ് കറന്റ് തന്നിരിക്കുന്ന കറന്റ് io ന് തുല്യമാക്കി അത് നമ്മൾ ഇതിനകം ചെയ്തു അതിനാൽ ബയസ് ചെയ്യാനാണ് നമ്മൾ ഇത് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഇത് സിഗ്നലുകൾക്കായി ചെയ്യും ഇപ്പോൾ സിഗ്നലുകൾക്കായി ഏറ്റവും സൌകര്യപ്രദമായ മാർഗം സോഴ്സ് ഫീഡ്ബാക്ക് ബയസിംഗ് കോപ്പി ചെയ്യുക എന്നതാണ് നമ്മൾ ഇവിടെ എന്തുചെയ്യുന്നു നമുക്ക് ഒരു നിശ്ചിത ഡ്രെയിൻ കറന്റ് ID ഉണ്ടായിരുന്നു അത് തന്നിരിക്കുന്ന കറന്റ് സോഴ്സിന് തുല്യമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റ് io മായി ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ ഇതിനെ ഞാൻ I1 എന്ന് വിളിക്കട്ടെ ഇത് IDI1 എന്നാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചു അങ്ങനെ വ്യത്യാസം ഒരു പാരാസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്നു ID I1 നേക്കാൾ കൂടുതലാണെങ്കിൽ അത് സോഴ്സ് വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയും അതുവഴി ID യുടെ മൂല്യം കുറയ്ക്കുകയും ചെയ്യുന്നു ഗേറ്റ് ഒരു നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ID I1 നേക്കാൾ കുറവാണെങ്കിൽ കപ്പാസിറ്ററിൽ നിന്ന് കറന്റ് പുറത്തെടുക്കും സോഴ്സ് വോൾട്ടേജ് താഴുകയും VGS വർദ്ധിക്കുകയും കറന്റ് വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ സിഗ്നലുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നതിനുള്ള ഒരു സൌകര്യപ്രദമായ മാർഗമാണിത് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ കറന്റ് അങ്ങനെയാണ് ഒഴുകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കറന്റ് കണക്റ്റുചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇത് ഇൻപുട്ട് കറന്റാണ് അതിനാൽ നമ്മൾ അതിനെ ii എന്ന് വിളിക്കുന്നു അതിനാൽ എന്ത് സംഭവിക്കുന്നു നമ്മൾക്ക് ഇവിടെ ii ഉണ്ട് അവിടെ id ഉണ്ട് ഗേറ്റ് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഇത് ചില നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ അതിനെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു മുമ്പത്തെപ്പോലെ തന്നെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഒരു പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് സങ്കൽപ്പിക്കാൻ കഴിയും ഈ വ്യത്യാസം id ii അതിലേക്ക് ഒഴുകും തുടക്കത്തിൽ id വളരെ ചെറുതാണെങ്കിൽ എന്തുസംഭവിക്കും അപ്പോൾ ഈ കറന്റ് നെഗറ്റീവ് ആയിരിക്കും അതിനാൽ കറന്റ് Cp ൽ നിന്ന് പുറത്തെടുക്കും സോഴ്സ് വോൾട്ടേജ് താഴും vgs വർദ്ധിക്കുകയും id വർദ്ധിക്കുകയും ചെയ്യും നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് id വളരെ വലുതാണ് ഇപ്പോൾ id ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു അതിനാൽ ഡ്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഭാഗം ഒരു ലോഡുമായി ബന്ധിപ്പിക്കുന്നതിന് നമുക്ക് അത് ഉപയോഗിക്കാം അതൊരു ലോഡാണ് ചിത്രീകരണത്തിന് ഇത് ഒരു റെസിസ്റ്റൻസാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും അതിനാൽ എല്ലാം അവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ഈ സ്കീമിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്തില്ല പക്ഷേ ഒരു ഔട്ട്പുട്ട് കറൻറ് അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ കറൻറ് ഒരു നിശ്ചിത കറന്റിലേക്ക് മാറ്റുക നമ്മൾ ഇതിനകം തന്നെ ഇത് ബയസ് ചെയ്തു ഇവിടെ നമ്മൾ ഈ മൊത്തം കറന്റ് ID ഈ കറന്റ് I1 ന് തുല്യമാക്കി ഇപ്പോൾ മൊത്തം കറന്റിന് ബാധകമാകുന്നത് ഇൻക്രെമെന്റൽ വൈദ്യുത പ്രവാഹങ്ങൾക്ക് തീർച്ചയായും ബാധകമാണ് നമ്മൾ അതേ സ്കീം ഉപയോഗിച്ചു ഈ Cp യിലേക്ക് എത്രത്തോളം കറൻറ് ഒഴുകുന്നുവെന്ന് നോക്കുന്നതിലൂടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രവർത്തനം വളരെ വ്യക്തമായിരിക്കണം അത് വ്യത്യാസം id ii ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇതാണ് നമ്മളുടെ കറന്റ് ബഫർ അല്ലെങ്കിൽ കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് അല്ലെങ്കിൽ കുറഞ്ഞത് അത്തരമൊരു ബ്ലോക്ക് നേടാനുള്ള നമ്മളുടെ ശ്രമമാണിത് ഇപ്പോൾ സ്ഥിരമായ അവസ്ഥയിൽ കപ്പാസിറ്ററിലൂടെ വൈദ്യുത പ്രവാഹങ്ങളൊന്നും പ്രവഹിക്കുന്നില്ലെന്നും ഇവയെല്ലാം ഇവിടെ ഒഴുകുമെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് vgs സ്വയം ക്രമീകരിക്കുമെന്നതിനാൽ ഇവിടെ ഒഴുകുന്ന കറന്റ് gm x vgs ii ന് തുല്യമാണ് ഇപ്പോൾ ഇത് ശരിക്കും ചെയ്യുന്നുണ്ടോയെന്നും അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണെന്നും കാണുന്നതിന് നമുക്ക് ഇത് കൂടുതൽ വിശകലനം ചെയ്യാൻ കഴിയും